ഈ കോഴ്സിലെ ഗ്രീടി അല്ഗോരിതത്തിന്റെ അവസാന ഉദാഹരണത്തിനായി നമുക്ക് ഒരു പ്രശ്ന ആശയവിനിമയ സിദ്ധാന്തം നോക്കാം ഹഫ്മാൻ കോഡുകളുടെ പ്രശ്നം നമ്മുക്ക് നോക്കാം നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിവരങ്ങൾ കൈമാറണം അതിനാൽ നമ്മൾ ഇംഗ്ലീഷ് ഹിന്ദി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഷയിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം പക്ഷേ നമ്മളുടെ ഡാറ്റ കൈമാറാൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ ഈ വിവരങ്ങൾ ബൈനറി സ്ട്രിംഗുകളിൽ അയയ്ക്കണമെന്ന് നമുക്കറിയാം അതിനാൽ നമ്മുടെ മാതൃകയായ ലക്ഷ്യം ഒരു അക്ഷരമാല എടുക്കുക തുടർന്ന് 0 1 സ്ട്രിംഗുകളിൽ എൻകോഡു ചെയ്യുക അങ്ങനെ മറ്റേ അറ്റത്ത് നമുക്ക് ഡീകോഡ് ചെയ്ത് സന്ദേശം വീണ്ടെടുക്കാൻ കഴിയും നിങ്ങൾ 26 ചെറിയ അക്ഷരങ്ങൾ a മുതൽ z വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവ എളുപ്പത്തിൽ കാണാൻ കഴിയും ഓരോ അക്ഷരത്തെയും 0 1 എന്നിവയുടെ നിശ്ചിത ശ്രേണിയായി നിശ്ചിത നീളത്തിൽ എൻകോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അക്ഷരത്തിനായി 5 ബിറ്റുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ 4 ബിറ്റുകൾ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 16 വ്യത്യസ്ത കോമ്പിനേഷനുകൾ മാത്രമേ ലഭിക്കൂ 5 ബിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് 32 വ്യത്യസ്ത കോമ്പിനേഷനുകൾ ലഭിക്കും അതിനാൽ ഇപ്പോൾ ഒരു സ്വാഭാവിക ചോദ്യം എന്തെന്നാൽ വ്യത്യസ്ത അക്ഷരങ്ങൾക്കായി വ്യത്യസ്ത നീളമുള്ള എൻകോഡിംഗ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതിലൂടെ കൂടുതൽ പതിവ് അക്ഷരങ്ങൾ ഹ്രസ്വ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് അയയ്ക്കും അതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സന്ദേശം അയയ്ക്കുന്നതിന് നമ്മൾ യഥാർത്ഥത്തിൽ കൈമാറുന്ന ഡാറ്റയുടെ അളവ് ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയുമോ അതിനാൽ വേരിയബിൾ ലെങ്ത് എൻകോഡിംഗ് എന്ന ആശയത്തിലേക്ക് ഇത് നമ്മളെ കൊണ്ടുവരുന്നു ഇവിടെ അക്ഷരമാലയിലെ വ്യത്യസ്ത അക്ഷരങ്ങൾക്കായി വ്യത്യസ്ത നീളത്തിലുള്ള വ്യത്യസ്ത സ്ട്രിംഗുകൾ ഉപയോഗിക്കുന്നു വേരിയബിൾ ലെങ്ത് എൻകോഡിംഗിന്റെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണമാണ് ക്ലാസിക്കൽ മോഴ്സ് കോഡ് ഇത് കണ്ടുപിടിച്ച ടെലിഗ്രാഫിൽ നിന്ന് സാമുവൽ മോഴ്സ് വികസിപ്പിച്ചെടുത്തു അതിനാൽ ഒരു കോൺടാക്റ്റിൽ ക്ലിക്കുചെയ്ത് ഒരു മെക്കാനിക്കൽ ഉപകരണം ഉപയോഗിച്ച് ഇത് ചെയ്തു ഇത് ദൈർഘ്യമേറിയതും ഹ്രസ്വവുമായ ക്ലിക്കുകൾ സൃഷ്ടിക്കും അതിനാൽ ഹ്രസ്വ ക്ലിക്കുകളെ ഡോട്ടുകൾ എന്നും നീണ്ട ക്ലിക്കുകളെ ഡാഷുകൾ എന്ന് വിളിക്കുന്നു ഇവയെ 0 1 ബിറ്റുകളെ പ്രതിനിധീകരിക്കുന്നതായി നമുക്ക് ചിന്തിക്കാം മോഴ്സ് കോഡ് എൻകോഡിംഗിൽ വ്യത്യസ്ത അക്ഷരങ്ങൾക്ക് വ്യത്യസ്ത എൻകോഡിംഗുകളും ഇംഗ്ലീഷിൽ ഇ ഏറ്റവും പതിവ് അക്ഷരവും ടി മറ്റൊരു വേരിയൻറ് പതിവ് അക്ഷരവുമാണ് അതിനാൽ മോഴ്സ് അവർക്ക് ഒരു ഡോട്ടിന്റെ കോഡുകൾ നൽകി അതായത് e ന് 0 ഉം പിന്നെ ഒരു ഡാഷ് അതായത് t ന് 1 എന്നിട്ട് മോഴ്സ് എ പോലുള്ള മറ്റ് പതിവ് അക്ഷരങ്ങൾ എടുത്ത് അവർക്ക് രണ്ട് അക്ഷര എൻകോഡിംഗുകൾ നൽകി അതിനാൽ ഒരു ഡോട്ട് ഡാഷായി എൻകോഡുചെയ്തു ഇവിടെ 0 ഉം 1 ഉം ഇപ്പോൾ മോഴ്സിന്റെ എൻകോഡിംഗിലെ പ്രശ്നം നിങ്ങൾ ഡീകോഡിംഗിലേക്ക് വരുമ്പോൾ അവ്യക്തമാണ് എന്നതാണ് ഉദാഹരണത്തിന് 0 1 എന്ന സീക്വൻസ് എന്ന വാക്ക് നോക്കിയാൽ ഇവയെല്ലാം ഒരു അക്ഷര കോഡായി വ്യാഖ്യാനിച്ച് e t e t നേടണോ എന്ന് നമുക്കറിയില്ല ഉദാഹരണത്തിന് ഇതിനെ രണ്ട് അക്ഷര കോടുകളായി നാം ചിന്തിക്കണം a a ഉം മറ്റും നേടുക അതിനാൽ ഇത് 0 ആണോ അല്ലെങ്കിൽ 0 മുതൽ 0 1 വരെ നീട്ടുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ച് നമുക്ക് നിരവധി വ്യാഖ്യാനങ്ങൾ ലഭിക്കും ഇപ്പോൾ മോഴ്സ് കോഡിൽ പ്രായോഗികമായി സംഭവിക്കുന്നത് അക്ഷരത്തിന്റെ അവസാനം സൂചിപ്പിക്കുന്ന ഒരു സ്ലൈഡ് പോസ് ഓപ്പറേറ്റർ നൽകുന്നു എന്നതാണ് അതിനാൽ ഫലപ്രദമായി മോഴ്സ് കോഡ് ഒരു ബൈനറി കോഡല്ല പക്ഷേ ഇത് മൂന്ന് അക്ഷര കോഡ് 0 1 കൂടാതെ പോസും ആണ് ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ തീർച്ചയായും ഉപയോഗിക്കുന്നു മൂന്ന് അക്ഷരങ്ങളിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ വെറും രണ്ട് അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഇവ കാര്യക്ഷമമായി ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു വേരിയബിൾ ലെങ്ത് കോഡിനെ വ്യക്തമല്ലാത്ത ഡീകോഡബിൾ ആക്കുന്നതിന് നമുക്ക് ഒരു പ്രിഫിക്സ് ക്വാണ്ടിറ്റി ആവശ്യമാണ് 0 1 എന്നിവയുടെ ഒരു ശ്രേണിയിലൂടെ വായിക്കുമ്പോൾ ഒരു അക്ഷരം വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ വായിക്കാനുണ്ടോ എന്നത് അവ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം മുമ്പത്തെ കേസ് പോലെ ആയിരിക്കണം അവിടെ നമ്മൾ 0 വായിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ 0 ത്തിൽ നിർത്തണോ കൂടാതെ മോഴ്സ് കോഡ് ക്രമീകരണത്തിൽ ഇ എന്ന് വിളിക്കണോ അല്ലെങ്കിൽ അതിനെ 0 1 എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അതിനാൽ ഫംഗ്ഷൻ എൻകോഡിംഗ് സൂചിപ്പിക്കാൻ നമ്മൾ വലിയ അക്ഷരം ഈ ഉപയോഗിക്കാൻ പോകുന്നു x ന്റെ E എന്നത് അക്ഷരത്തിന്റെ എൻകോഡിംഗാണ് അതിനാൽ ഇവിടെ ഒരു ഉദാഹരണം ഉണ്ട് നമുക്ക് എ ബി സി ഡി ഇ എന്നീ അഞ്ച് അക്ഷരങ്ങളുണ്ട് ഇപ്പോൾ ഈ എൻകോഡിംഗുകളിലൊന്നും ഒന്നിലേക്കും നീട്ടാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും ഞാൻ 1 1 കണ്ടാൽ അത് ഒരു ഹെഡ്ഡർ ആയിരിക്കണം അല്ലാതെ 1 1 ൽ ആരംഭിക്കുന്ന മറ്റൊരു കോഡും ഇല്ല ഞാൻ 0 0 കണ്ടാൽ അത് ഒരു കോഡല്ല പക്ഷേ 0 0 1 ഒരു കോഡാണ് അതിനാൽ 0 1 തുടങ്ങിയവ വിപുലീകരിക്കാൻ കഴിയില്ല ഇവയെല്ലാം മറ്റേതൊരു അക്ഷരത്തിന്റെയും കോഡായി വിപുലീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള ശ്രേണിയിൽ എത്തുമ്പോൾ സംശയമില്ല ഞാൻ ഒരു അക്ഷരം പൂർത്തിയാക്കുമ്പോൾ ആദ്യത്തെ പോയിന്റ് 0 0 1 ആണ് ഇത് സി ആണ് അടുത്ത പോയിന്റ് എന്തെന്നാൽ ഞാൻ ഒരു അക്ഷരം പൂർത്തിയാക്കുമ്പോൾ മൂന്ന് 0 ആണ് കൂടാതെ അത് ഇ ആണ് തുടർന്ന് ഞാൻ മറ്റൊരു സി വായിക്കുകയും പിന്നീട് എ പിന്നെ ബി അതിനാൽ നമുക്ക് പ്രിഫിക്സ് കോഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ഒരു അക്ഷരവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്ഷരം എൻകോഡിംഗിന്റെ പ്രിഫിക്സായ സ്ട്ര്രിങ്ങിലേക്ക് എൻകോഡ് ചെയ്തിട്ടില്ല എൻകോഡുചെയ്തിട്ടില്ലെങ്കിൽ നമ്മുക്ക് വ്യക്തമായ ഡീകോഡിംഗ് സാധ്യമാണ് ഇത് വളരെ പ്രധാനമാണ് ഒപ്റ്റിമൽ പ്രിഫിക്സ് കോഡുകൾ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനാൽ ഒപ്റ്റിമിലിറ്റി എന്നതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് കൂടുതൽ പതിവ് അക്ഷരങ്ങൾക്ക് ഹ്രസ്വ കോഡുകൾ നൽകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞതായി ഓർക്കുക അതിനാൽ എന്താണ് പതിവ് പതിവ് കുറവ് അക്ഷരങ്ങൾ എന്ന് എങ്ങനെയെങ്കിലും നമ്മൾ നിർണ്ണയിക്കേണ്ടതുണ്ട് ഓരോ അക്ഷരത്തിന്റെയും വ്യത്യസ്ത ഭാഷകളുടെയും ആവൃത്തി ആളുകൾ അളക്കുന്നു അതിനാൽ ഇത് വളരെ ഭാഷാ നിർദ്ദിഷ്ട കാര്യമാണ് ഈ ഒപ്റ്റിമിലിറ്റി ഇംഗ്ലീഷിന് അനുയോജ്യമായ ഒന്നാണ് പക്ഷെ ഫ്രഞ്ച് സ്പാനിഷ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നിൽ പ്രവർത്തിക്കില്ല അതിനാൽ നിങ്ങൾ ഒരു പ്രത്യേക ഭാഷയിൽ ഒരു വലിയ വാചകം എടുക്കുകയും നിങ്ങൾ എ ബി സി ഡി ഇ എന്നിവയുടെ എണ്ണം കണക്കാക്കുകയും തുടർന്ന് എല്ലാ ഘട്ടങ്ങളിലുടനീളമുള്ള ആകെ അക്ഷരങ്ങളുടെ എണ്ണത്തിൽ എത്രയെണ്ണം ഇ എത്ര ബി എത്ര സി ഉണ്ടെന്നു നോക്കുക ഇതിന്റെ ശരാശരി ആവൃത്തിയുടെ ഒരുതരം സ്ഥിതിവിവരക്കണക്കാണ് ഇത് ഈ ആവൃത്തി ഒരു ഭിന്നസംഖ്യയായിരിക്കും ഒരു വലിയ വാചകത്തിന് മുകളിലുള്ള അക്ഷരത്തിന്റെ ഏത് അംശം ഇ ആയിരിക്കും ഏതെല്ലാം ഭിന്നസംഖ്യകൾ സി ആയിരിക്കും ഈ ഭിന്നസംഖ്യ ഒരെണ്ണം വരെ ചേർക്കും കാരണം ഓരോ അക്ഷരവും അവയിലൊന്നായിരിക്കും അതിനാൽ a യുടെ ഭിന്നസംഖ്യ പ്ലസ് ആണ് b യുടെ ഭിന്നസംഖ്യ പ്ലസ് ആണ് c യുടെ ഭിന്നസംഖ്യ 1 ലേക്ക് ചേർക്കാൻ പോകുന്നു ഇക്കാരണത്താൽ ഈ സ്ഥിതിവിവരക്കണക്ക് കണക്കാക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരുതരം പ്രോബബിലിറ്റിയെക്കുറിച്ചോ നമുക്ക് ചിന്തിക്കാം ഞാൻ നിങ്ങൾക്ക് ഒരു റാൻഡം അക്ഷരം തരാം ഞാൻ ആ ടെക്സ്റ്റ് നോക്കുകയും ടെക്സ്റ്റിൽ നിന്ന് ഒരു റാൻഡം അക്ഷരം എടുക്കുകയും ചെയ്താൽ x ന്റെ സാധ്യത എന്താണ് അത് x ന്റെ എല്ലാ ടെക്സ്റ്റിലുമുള്ള x ന്റെ ആവൃത്തി മാത്രമാണ് അതിനാൽ ഇവ 1 ലേക്ക് ചേർക്കും ഇപ്പോൾ നമുക്ക് ഒരു സന്ദേശമുണ്ട് അതിൽ ചില n ചിഹ്നങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ നമുക്ക് M 1 M 2 എന്നിങ്ങനെ M n വരെ ഉണ്ട് അതിനാൽ ഇവ n ചിഹ്നങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാം ഞാൻ ഒരു പ്രത്യേക അക്ഷരം x എടുക്കുകയാണെങ്കിൽ ഇവയുടെ fx ഭിന്നസംഖ്യ x ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ n എടുത്ത് ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഞാൻ ഉറപ്പിക്കുന്നത് മൂന്നിലൊന്ന് ആണെങ്കിൽ അത് n ന്റെ മൂന്നിലൊന്ന് ആണ് അതിനാൽ n ഈ 3 ചിഹ്നങ്ങളിൽ യഥാർത്ഥത്തിൽ x അക്ഷരം ആയിരിക്കും ഇപ്പോൾ ഈ x ഓരോന്നും പ്രതിനിധീകരിക്കാൻ പോകുന്നത് എൻകോഡിംഗ് ആണ് ഇത് 0 1 0 ആണെന്ന് കരുതുക ഓരോ x ഉം 3 ബിറ്റുകളാൽ പ്രതിനിധീകരിക്കാൻ പോകുന്നു അതിനാൽ n f x ലേക്ക് f c x ന്റെ തവണകളുടെ എണ്ണമാണ് ഇത് ഈ എൻകോഡിംഗിന്റെ ദൈർഘ്യത്തിലേക്ക് എനിക്ക് എടുത്ത ആകെ ബിറ്റുകളുടെ എണ്ണം നൽകും ഈ സന്ദേശത്തിലെ എല്ലാ x കളും എൻകോഡ് ചെയ്യുക ഇപ്പോൾ ഓരോ അക്ഷരത്തിനും ഞാൻ ഇത് ചെയ്യുന്നുവെങ്കിൽ എന്റെ അക്ഷരമാലയിലെ ഓരോ y അല്ലെങ്കിൽ ഓരോ x ലും n ന്റെ ഇരട്ടി ആവൃത്തി ഞാൻ എടുക്കുകയാണെങ്കിൽ അക്ഷരത്തിന്റെ ആവൃത്തി ആ അക്ഷരത്തിന്റെ എൻകോഡിംഗ് ദൈർഘ്യത്തിന്റെ ഇരട്ടിയാണ് ആ പ്രത്യേക അക്ഷരം എൻകോഡുചെയ്യാനും എല്ലാ അക്ഷരങ്ങളും ചേർക്കാനും എനിക്ക് എത്ര ബിറ്റുകൾ ആവശ്യമാണെന്ന് ഇത് എനിക്ക് പറഞ്ഞു തരും എൻകോഡുചെയ്ത സന്ദേശത്തിന്റെ ആകെ ദൈർഘ്യം എനിക്ക് ലഭിക്കുന്നു ഞാൻ ഈ n ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ n ഇത് സംഗ്രഹ ത്തിന്റെ ഭാഗമല്ല അത് ഒരു സ്വതന്ത്ര കാര്യമാണ് ഇത് ഏതെങ്കിലും n ന്റെ ഒരു ഭാഗമാണ് എൻകോഡിംഗുകളുടെ രണ്ട് ലിങ്കുകളുടെ ആകെ ഭാരം ശരാശരി നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രോബബിലിറ്റി സിദ്ധാന്തം പഠിക്കുകയാണെങ്കിൽ ഇതിനെ എൻകോഡിംഗിന്റെ പ്രതീക്ഷിത ദൈർഘ്യം എന്ന് വിളിക്കുന്നു അതിനാൽ ഇതാണ് ബിറ്റുകളുടെ ശരാശരി എണ്ണം ഞാൻ ഒരു അക്ഷരത്തിനായി ഉപയോഗിക്കുന്നു ഇത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനാൽ 5 അക്ഷരങ്ങളുടെ മുമ്പത്തെ ഉദാഹരണം എടുക്കുന്നുവെന്ന് കരുതുക ഇപ്പോൾ നമ്മൾ ആവൃത്തികളെക്കുറിച്ചുള്ള ചില സാങ്കൽപ്പിക വിവരങ്ങൾ ചേർക്കുന്നു ഈ അഞ്ച് മൂല്യങ്ങളും 0 ത്തിനും 1 നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് നിങ്ങൾക്ക് 1 ലേക്ക് ചേർക്കാൻ കഴിയും പിന്നെ ഞാൻ ഈ സംഗ്രഹം x ന്റെ x മടങ്ങ് f മടങ്ങ് E ന്റെ നീളം x പിന്നെ എനിക്ക് 0 32 മടങ്ങ് 2 ഉണ്ട് കാരണം എ യുടെ എൻകോഡിംഗ് രണ്ട് അക്ഷരങ്ങളാണ് പിന്നെ എനിക്ക് 0 25 മടങ്ങ് മുതൽ 2 വരെ അക്ഷരങ്ങളുണ്ട് കാരണം എൻകോഡിംഗ് ഇ രണ്ട് അക്ഷരങ്ങളാണ് എനിക്ക് ഈ അഞ്ച് പദങ്ങളായ എ ബി സി ഡി ഇ ഉണ്ട് എന്നിട്ട് ഞാൻ അവ കൂട്ടിനോക്കി എനിക്ക് 2 25 ലഭിക്കുന്നു അതിനാൽ എനിക്ക് ഒരു അക്ഷരത്തിന് ശരാശരി 2 25 ബിറ്റുകൾ ആവശ്യമാണെന്ന് പറയുന്നു തീർച്ചയായും ഞാൻ ഒരു അക്ഷരത്തിന് 2 25 ബിറ്റുകൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇത് പറയുന്നത് എനിക്ക് 100 അക്ഷരങ്ങളുണ്ടെങ്കിൽ 5 ഔട്ട്പുട്ട് എൻകോഡിംഗിൽ 225 ബിറ്റുകൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഒരു നിർദ്ദിഷ്ട തരം പ്രിഫിക്സ് കോഡ് നിശ്ചിത ദൈർഘ്യ കോഡാണ് ഇവിടെ ഓരോ കോഡും നിശ്ചിത നീളത്തിലേക്കുള്ളത് കൊണ്ട് ഓരോന്നും എവിടെയാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം ഈ കേസിൽ ഞാൻ 3 ബിറ്റുകൾ ഉപയോഗിക്കുന്നുവെന്ന് കരുതുക ഇതിന്റെ ദൈർഘ്യ കോഡ് ശരിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഞ്ച് അക്ഷരങ്ങളുണ്ട് എനിക്ക് 2 ബിറ്റുകൾ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയില്ല കാരണം എനിക്ക് നാല് വ്യത്യസ്ത കോമ്പിനേഷനുകൾ മാത്രമേ ലഭിക്കൂ അതിനാൽ എനിക്ക് 3 ബിറ്റുകൾ ആവശ്യമാണ് ഞാൻ കുറച്ച് 3 ബിറ്റ് കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ 3 ബിറ്റുകളും ഒരു അക്ഷരമായിരിക്കും ഇതിലെ നിശ്ചിത ദൈർഘ്യ എൻകോഡിംഗിൽ ഞാൻ അക്ഷരങ്ങൾക്കായി 3 ബിറ്റുകൾ ഉപയോഗിക്കും അതിനാൽ വ്യക്തമായി ഓരോ അക്ഷരത്തിനും 3 ബിറ്റുകൾ ഉണ്ട് കാരണം അവയിൽ ഓരോന്നിനും 3 ഉപയോഗിക്കുന്നു അങ്ങനെ ഒരു ഫ്രീക്വൻസി എടുക്കുന്ന ഒരു വേരിയബിൾ ലെങ്ത് കോഡ് എൻകോഡിംഗിലേക്ക് പോയി അത് യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത് 100 പ്രതീകങ്ങൾക്ക് 300 ബിറ്റുകൾ അയയ്ക്കുക എന്നതാണ് അത് 225 ലേക്ക് അയയ്ക്കുന്നു അതിനാൽ നമുക്ക് 25 ശതമാനം ലാഭമുണ്ട് ഇതിൽ എത്തിച്ചേരാൻ ആണ് നമ്മൾ ശ്രമിക്കുന്നത് മുമ്പത്തെ കാര്യത്തിലെ ഈ ഉദാഹരണത്തിൽ നമുക്ക് 0 2 0 18 എന്നീ രണ്ട് ഫ്രീക്വൻസികളുണ്ട് 0 18 എന്നാൽ ഡി എന്നത് സി യേക്കാൾ കുറവാണ് പക്ഷേ എങ്ങനെയെങ്കിലും നമ്മൾ സി യെ ഒരു ദൈർഘ്യമേറിയ കോഡായി നിയോഗിച്ചു അതിനാൽ പതിവ് അക്ഷരങ്ങളിലേക്ക് ഹ്രസ്വ കോഡ് നൽകണം എന്ന നമ്മുടെ അടിസ്ഥാന തത്വത്തെ ഇത് ലംഘിച്ചു അതിനാൽ ഒരെണ്ണം മറ്റൊന്നിനേക്കാൾ കൂടുതൽ പതിവുള്ള ഒരു ജോഡി അക്ഷരങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു ഹ്രസ്വ കോഡ് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അത് വിപരീതമാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ മൂന്ന് അക്ഷര കോഡും ഡി ന് രണ്ട് അക്ഷര കോഡും നൽകുന്നുവെന്ന് കരുതുക ഈ രണ്ട് പദങ്ങളും മറ്റ് പദങ്ങളെ മാറ്റുന്നു എൻകോഡിംഗ് വ്യത്യാസപ്പെട്ടിരിക്കാമെങ്കിലും നീളം മാറില്ല അതിനാൽ എനിക്ക് 2 25 ലഭിക്കുന്നതിനു പകരം ഞാൻ 2 23 ലേക്ക് പോകുന്നു അതിനാൽ ഇത് പറയുന്നത് വ്യത്യസ്ത എൻകോഡിംഗുകൾ നോക്കുമ്പോൾ എനിക്ക് വ്യത്യസ്ത എ ബി എൽ മൂല്യങ്ങൾ ലഭിക്കും ഈ അക്ഷരത്തിന് ശരാശരി ബിറ്റുകൾ ഇപ്പോൾ ഈ അളവ് കുറയ്ക്കുന്ന ഒരു അസൈൻമെന്റ് ക്യാപിറ്റൽ ഇ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനാൽ നമ്മുടെ കോഡിംഗിൽ ശരാശരി കാര്യക്ഷമത സാധ്യമാണ് ഇതിലേക്ക് എത്താൻ ഈ എൻകോഡിംഗുകൾക്ക് ബൈനറി ട്രീ ഉണ്ടെന്ന് ചിന്തിക്കുന്നത് ഉപയോഗപ്രദമാണ് അതിനാൽ ഒരു ബൈനറി ട്രീയിൽ എനിക്ക് ദിശകളെ 0 1 എന്നിങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും സാധാരണ ഇടത് 0 ഉം വലത് 1 ഉം ആണ് ഒരു ബൈനറി ട്രീയിലെ ഒരു പാതയുടെ ഇത് ഒരു ബൈനറി സീക്വൻസും ആയിരിക്കും ഈ പാത വലതുവശത്ത് ഈ പാത 1 1 1 ഉം ഈ പാത്ത് പ്രോഗ്രാം 0 1 ഉം ഈ പാത 0 0 ഉം ആണ് ഇപ്പോൾ ഞാൻ ഒരു പാത വായിക്കുകയും ആ ലേബലിന്റെ അക്ഷരം കണ്ടെത്തുകയും ചെയ്താൽ ആ പാത ലേബൽ ചെയ്യുന്നത് ആ അക്ഷരം ആ പാതയിലൂടെ എൻകോഡുചെയ്തുവെന്ന് പറയുന്നതാണ് നല്ലത് ഇവിടെ ബൈനറി ട്രീയിൽ 0 0 0 എൻകോഡിംഗ് ഉള്ളതിനാൽ ഞാൻ 0 0 0 പാത്ത് പിന്തുടരുകയും ആ അക്ഷരം e കൊണ്ട് ലംബമാക്കുകയും ചെയ്യും ഇപ്പോൾ ഇത് ഒരു പ്രിഫിക്സ് കോഡായതിനാൽ 0 0 0 ലേബലുകൾ ഇ ആണെങ്കിൽ 0 0 0 ഉം അതിലും കൂടുതലും പറയുന്ന ഒരു കോഡും ഉണ്ടാകില്ല അവയ്ക്ക് ചുവടെ മറ്റൊരു ലേബൽ ഉണ്ടാകില്ല ഈ ലേബലുകൾ മറ്റ് ലേബലുകളിലേക്ക് വ്യാപിക്കുകയില്ല d ന് താഴെയുള്ള ഒരു എഫ് ഞാൻ കണ്ടെത്തുകയില്ല അല്ലാത്തപക്ഷം ഇത് ഒരു പ്രിഫിക്സ് കോഡല്ല ഞാൻ 1 0 ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഒരു ടി കിട്ടുന്നു പക്ഷേ ഞാൻ 1 0 മറ്റെന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ എനിക്ക് ഒരു f ലഭിക്കുന്നു അതിനാൽ f നുള്ള കോഡ് d നുള്ള കോഡ് വിപുലീകരിക്കുന്നു ഇത് പര്യാപ്തമല്ല അതിനാൽ ഒരു പ്രിഫിക്സ് കോഡിൽ ഇത് സംഭവിക്കാൻ കഴിയില്ല എല്ലാ ലേബലുകളും യഥാർത്ഥത്തിൽ ലീഫ് നോഡുകളിലാണ് കൂടുതൽ വിജയങ്ങളുള്ള നോഡുകളുണ്ട് നമുക്ക് ഉണ്ടായിരുന്ന മറ്റ് സ്കീമിനായുള്ള ഒരു എൻകോഡിംഗ് ഇവിടെയുണ്ട് അവിടെ നമ്മൾ മൂല്യങ്ങൾ കൈമാറ്റം ചെയ്തത് c d എന്നിവയാണ് അതിനാൽ ഇപ്പോൾ c ന് രണ്ട് അക്ഷര കോഡും d ന് മൂന്ന് അക്ഷര കോഡും ഉണ്ട് ഇത് ഇപ്പോൾ ആഴത്തിലുള്ളത് സൂചിപ്പിക്കുന്നുഈ ആഴം പാതയാണ് പാതയുടെ നീളം നോഡിന്റെ ആഴമാണ് അതിനാൽ സി യുടെ ആഴം 3 ആയിരുന്നു ഇപ്പോൾ ആഴം 2 ഉം ഡി ആഴത്തിൽ 2 ആയിരുന്നു ഇപ്പോൾ ആഴം 3 അടിസ്ഥാനപരമായി ഉയർന്ന ആവൃത്തികളുള്ളതും ട്രീ ഉയർന്നതുമായ കാര്യങ്ങൾ ഇങ്ങനെ ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എൻകോഡുചെയ്തത് ബൈനറി ട്രീ എൻകോഡുചെയ്യുന്നു നമ്മൾ ഇപ്പോൾ കുറച്ച് നിരീക്ഷണങ്ങൾ നടത്തും ചുവടെയുള്ള മൂന്ന് നിരീക്ഷണങ്ങൾ ഒരു ഒപ്റ്റിമൽ അൽഗോരിതം വികസിപ്പിക്കാനും അത് ഒപ്റ്റിമൽ ആണെന്ന് തെളിയിക്കാനും ഉപയോഗപ്രദമാകും അതിനാൽ ആദ്യത്തെ കാര്യം അത്തരമൊരു ട്രീയിൽ അത് ഒപ്റ്റിമൽ ആണെങ്കിൽ ഓരോ നോഡിനും ഒന്നുകിൽ കുട്ടികളില്ല ഒരു ലീഫ് ഉണ്ടാകും അല്ലെങ്കിൽ അതിന് രണ്ട് കുട്ടികളുണ്ടാകും അതിനാൽ ഇതിനെ നമ്മൾ ഫുൾ എന്ന് വിളിക്കുന്നു ഇപ്പോൾ എല്ലാ ഒപ്റ്റിമൽ ട്രീയും നിറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇത് കാണാൻ എളുപ്പമാണ് കാരണം ക്ലെയിം കരുതുന്നത് നമ്മുക്ക് മറ്റൊരു ഒപ്റ്റിമൽ ട്രീ ഉണ്ട് അതിൽ എവിടെയെങ്കിലുംഒരു നോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തുടർന്ന് ഈ കുട്ടിയെ ഫലപ്രദമായി പ്രമോട്ടുചെയ്യാൻ കഴിയും നമുക്ക് ഈ നോഡ് പൂർണ്ണമായും നീക്കംചെയ്യാം ഈ ദിശയിൽ നമുക്ക് ട്രീ സ്ട്രിംഗ് ചെയ്യാൻ കഴിയും കൂടാതെ താഴെയുള്ള നോഡിന്റെ ആഴം കുറയുന്നു എന്നതൊഴിച്ചാൽ ഒന്നും മാറില്ല വാസ്തവത്തിൽ നമ്മുക്ക് ഒരു ചെറിയ ശരാശരി ബിറ്റ് നീളം ലഭിക്കും അതിനാൽ ഒരു സിംഗിൾട്ടൺ ഒരു ഇടത് കുട്ടി അല്ലെങ്കിൽ വലത് കുട്ടി മാത്രം ഒപ്റ്റിമൽ ആകാൻ കഴിയില്ല അതിനാൽ ഓരോ നോഡിനും 0 അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരിക്കണം അടുത്ത പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് അതായത് എനിക്ക് x y എന്നീ രണ്ട് നോഡുകൾ ഉണ്ടെങ്കിൽ x നെക്കാൾ ഉയർന്നതാണ് അതിനാൽ x ചില തലത്തിലും y വ്യത്യസ്ത തലത്തിലും ഉണ്ട് X ന് y നേകാൾ ഒരു ചെറിയ എൻകോഡിംഗ് ഉണ്ട് ഇതിനർത്ഥം x ന്റെ f കുറഞ്ഞത് y യുടെ അത്രയും f ആണെന്നാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ ട്രീയുടെ താഴേക്കു എത്തുമ്പോൾ എന്റെ ആവൃത്തി വർദ്ധിക്കാൻ കഴിയില്ല കാരണം f ന്റെ y f നെക്കാൾ വലുതാണ് x ന്റെ f എങ്കിൽ x ഒരു മെന്റാക്സ് ആണ് അപ്പോൾ ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് 2 ആണ് ഇവിടെ y ഉം x ഉം ഇട്ടുകൊണ്ട് ഒരു മികച്ച എൻകോഡിംഗ് ഞാൻ കണ്ടെത്തും കാരണം ഇപ്പോൾ ഞാൻ y സമയത്തിന്റെ y ഉം ഈ ട്രീയിലെ y ന്റെ ആഴവും ചെയ്താൽ അത് കുറയുന്നു കാരണം y ന്റെ ആഴം കുറയുകയും ഇത് ഉയർന്ന ഗുണിതമാണ് അതിനാൽ എനിക്ക് താഴെ ഒരു ഉയർന്ന കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് അക്ഷരം കൈമാറ്റം ചെയ്യാനും ഒരു മികച്ച ട്രീ നേടാനും കഴിയും അത് ഒപ്റ്റിമൽ ട്രീയിൽ സംഭവിക്കുന്നില്ല ഒപ്റ്റിമൽ ട്രീയിൽ ഞാൻ ട്രീയുടെ താഴേക്കു പോയാൽ ആവൃത്തി അക്ഷരങ്ങൾ ആണ് താഴെ കാണുന്നത് അവസാന പ്രോപേർട്ടി ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ലീഫുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ എനിക്ക് ഏറ്റവും താഴ്ന്ന ലീഫിൽ ഒരു ലീഫ് ഉണ്ടെന്ന് കരുതുക ഇത് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ചില ലീഫുകളാണ് അതിനാൽ എനിക്കറിയാം ഇത് ഒരു ഉത്തമ ട്രീയാണ് അത് ഒരു ഒറ്റപ്പെട്ട കുട്ടിയാകാൻ കഴിയില്ല അതിന് പോകാനും ഇറങ്ങാനും ഒരു സിബ്ലിംഗ് ഉണ്ടായിരിക്കണം രണ്ട് സാധ്യതകളിൽ ഇത് ഒരു ലീഫ് ആണ് അല്ലെങ്കിൽ മറ്റൊരു സാധ്യത ഇത് ഒരു ലീഫ് അല്ല അത് ഒരു ലീഫ് അല്ലെങ്കിൽ അതിന് കുട്ടികൾ ഉണ്ടായിരിക്കണം എന്നതാണ് അവകാശവാദം അതിനാൽ ഇവിടെ താഴത്തെ തലത്തിലുള്ള ലീഫുകൾ ഉണ്ട് പിന്നെ x എന്നാൽ x പരമാവധി ഡെപ്ത് d ആയി കണക്കാക്കപ്പെടുന്നു പരമാവധി ആഴത്തിലുള്ള ലീഫിനു സിബ്ലിങ്ങ്സ് ഉണ്ടാവാൻ പാടില്ല അത് ഒരു ലീഫ് അല്ല കാരണം സിബ്ലിങ്ങ്സിനു കുട്ടികളുണ്ടാകും അവർക്ക് കൂടുതൽ ആഴമുണ്ട് അതിനാൽ എന്റെ ഒപ്റ്റിമൽ ട്രീയിൽ എനിക്ക് പരമാവധി ഡെപ്ത് ലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കേണ്ടത് മറ്റൊരു ഡെപ്ത് ലീഫുള്ള ഒരു ജോഡിയാണ് ഇത് പരമാവധി ആഴത്തിലുള്ള ലീഫിലെ ജോഡികളായി സംഭവിച്ച ഒരു നിഗമനമാണ് തുടർന്ന് ആഴത്തിൽ കൂടുന്നതിനനുസരിച്ച് ആവൃത്തി കുറയുന്നുവെന്ന് നമുക്കറിയാം ഈ ജോഡികൾക്ക് ഏറ്റവും കുറഞ്ഞ ആവൃത്തികളിൽ ഏറ്റവും കുറഞ്ഞ ആവൃത്തി ഉണ്ടായിരിക്കണം അതിനാൽ പരിഹാരം വികസിപ്പിക്കുന്നതിന് നമ്മൾ ആവർത്തനം ഉപയോഗിക്കും അതിനാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആരംഭിക്കുന്ന മൊത്തത്തിലുള്ള പട്ടികയിൽ നോക്കാം ഏറ്റവും കുറഞ്ഞ ആവൃത്തിയിലുള്ള രണ്ട് അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കാം നമുക്ക് അവയ്ക്ക് ഏറ്റവും ദൈർഘ്യമേറിയ കോഡുകൾ നൽകാം അവ ഏറ്റവും താഴ്ന്ന നിലയിലാക്കാം തുടർന്ന് ജോഡികളിൽ ഏറ്റവും താഴ്ന്ന നില വിടുന്നുവെന്ന് നമുക്കറിയാം ഇവ ജോടിയാക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ x y എന്നീ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി അക്ഷരങ്ങൾ ഒരു ജോഡി ലീഫുകൾക്ക് പരമാവധി ഡെപ്ത് ഇടത് വലത് എന്നിവ പ്രശ്നമല്ല കാരണം ആഴം പ്രാധാന്യമർഹിക്കുന്നു ഇപ്പോൾ ആവർത്തന പരിഹാരം പറയുന്നു ട്രീയിന്റെ ബാക്കി ഭാഗങ്ങൾ എങ്ങനെയിരിക്കുമെന്ന് ഒരു കണക്ക് എങ്ങനെ മനസ്സിലാക്കാം എനിക്ക് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ x y എന്നിവ ഞാൻ തീരുമാനിച്ചു പിന്നെ ഞാൻ ഒരു തരം ട്രീ ചെയ്യും ഇതൊരു യൂണിറ്റാണ് കൂടാതെ x y എന്ന പുതിയ അക്ഷരം വിളിച്ച് പഴയ രണ്ട് അക്ഷരങ്ങളുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇഫക്റ്റുകളും x y ഉം നൽകുക അതിനാൽ പുതിയ അക്ഷരമാല നിർമ്മിക്കുക ഞാൻ x y എന്നിവ ഉപേക്ഷിക്കുകയും x y എന്ന ഹൈബ്രിഡ് അക്ഷരങ്ങളുടെ ഒരു പുതിയ മിശ്രിതം ചേർക്കുകയും ചെയ്യുന്നു ആരുടെ ആവൃത്തി f x പ്ലസ് f y ആയിരിക്കും ഇപ്പോൾ ആവർത്തന ഫിക്ഷൻ എനിക്ക് ഒരു കെ മൈനസ് 1 അക്ഷരo അക്ഷരമാലയുണ്ട് അതിനാൽ അതിന്റെ ഒപ്റ്റിമൽ എൻകോഡിംഗ് ഞാൻ ആവർത്തിച്ചു കണ്ടെത്തി ഇപ്പോൾ പരിഹാരം എങ്ങനെ പൊരുത്തപ്പെടുത്താമെന്ന് വരുന്നതിനുമുമ്പ് ആവർത്തന അറ്റങ്ങളിൽ രണ്ട് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം രണ്ട് ഒപ്റ്റിമൽ പരിഹാരം കൃത്യമായി രണ്ട് ഇലകളുള്ള വൃക്ഷം നിർമ്മിക്കുക എന്നതാണ് പാതയിൽ 0 1 ലേബൽ അതിനാൽ ഇതാണ് അടിസ്ഥാന കേസ് എനിക്ക് രണ്ടിൽ കൂടുതൽ അക്ഷരങ്ങളുണ്ടെങ്കിൽ ചെറിയ കാര്യത്തിലേക്ക് ഞാൻ ഒരു വൃക്ഷം ആവർത്തിച്ച് നിർമ്മിക്കും തുടർന്ന് ഞാൻ തിരികെ വരും ഇപ്പോൾ ഞാൻ നിർമ്മിച്ച വൃക്ഷത്തിന് ഇല ലേബൽ x y ഉള്ളിടത്ത് ചിലത് ഉണ്ടാകും ഇപ്പോൾ x y ഒരു അക്ഷരമല്ല അതിനാൽ ഞാൻ ഇത് മാറ്റിസ്ഥാപിക്കും x y എന്ന് രണ്ട് പുതിയ ഇലകൾ എഴുതുക ഞാൻ ട്രീയിൽ നിന്ന് ഒരു പ്രൈമിന് മുകളിലൂടെ എ യിലൂടെ ഒരു ട്രീയിലേക്ക് പോകും ഇത് ഡവലപ്പ് ചെയ്തത് ഹഫ്മാൻ ആണ് അതിനാൽ ഇത്തരത്തിലുള്ള കോഡിംഗിനെ ഹഫ്മാൻ കോഡിംഗ് എന്ന് വിളിക്കുന്നു നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഈ ഉദാഹരണം നോക്കാം ഇവിടെ ഏറ്റവും കുറഞ്ഞ രണ്ട് ഫ്രീക്വൻസി അക്ഷരങ്ങൾ d e അതിനാൽ നമ്മൾ അവയെ d e എന്ന പുതിയ അക്ഷരത്തിലേക്ക് ലയിപ്പിക്കുന്നു ഇത് 0 23 ആവൃത്തിയാണ് കാരണം ഇത് 0 05 ആണ് ഇപ്പോൾ ഇവ രണ്ടും ഏറ്റവും താഴ്ന്ന രണ്ട് അക്ഷരങ്ങളാണ് അതിനാൽ നമ്മൾ അവയെ ലയിപ്പിക്കുകയും നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 0 43 ന്റെ സി ഡി ഇ എന്ന പുതിയ അക്ഷരം ലഭിക്കുകയും ചെയ്യുന്നു ഇത് എല്ലാ ആവൃത്തികളുടെ ആകെത്തുകയാണ് രണ്ട് മൂല്യങ്ങൾ ഇപ്പോൾ ഇത് രണ്ടും ചെറുതാണ് അവ a b എന്ന അക്ഷരമാണ് ഇപ്പോൾ ഞാൻ കൃത്യമായി രണ്ട് അക്ഷരങ്ങളുള്ള എന്റെ അടിസ്ഥാന കേസ് ബ്രെസ്റ്റ് ചെയ്യുന്നു അതിനാൽ ഈ രണ്ട് അക്ഷരങ്ങളായ 0 1 എന്നീ ലേബലുകളെ എനിക്ക് സജ്ജമാക്കാൻ കഴിയും ഇനി ഞാൻ പിന്നിലേക്ക് പ്രവർത്തിക്കുന്നു അപ്പോൾ അവസാനമായി ഞാൻ ചെയ്തത് a b എന്നിവ ലയിപ്പിക്കുക എന്നതായിരുന്നു ഇപ്പോൾ ഞാൻ ഇത് എ ബി എന്നിവ എടുത്ത് എ ബി എന്നിങ്ങനെ വിഭജിക്കും ഞാൻ a b എന്നിവ എ യും ബിയും ആയി വിഭജിക്കും എനിക്ക് ഈ പ്രിന്റ് ലഭിക്കും തുടർന്ന് മുമ്പത്തെ ഘട്ടത്തിൽ c d e എന്നിവ c d e എന്നിവയുമായി സംയോജിപ്പിക്കുകയായിരുന്നു അതിനാൽ ഞാൻ ഈ സി ഡി ഇ എന്നിവയെ വിഭജിക്കുന്നു ഒടുവിൽ ഞാൻ ഇത് വിഭജിക്കാൻ പോകുന്നത് d ഉം e ഉം ആണ് അതിനാൽ ഇതാണ് ഹഫ്മാന്റെ അൽഗോരിതം Huffman's algorithm ഏറ്റവും കുറഞ്ഞ രണ്ട് ഫ്രീക്വൻസി നോഡുകൾ ആവർത്തിച്ച് സംയോജിപ്പിച്ച് തുടർന്ന് സംയോജിത നോഡ് എടുത്ത് അവയെ തിരികെ വിഭജിക്കുക അതിനാൽ ഈ അൽഗോരിതം ഒപ്റ്റിമൽ ആണെന്ന് കാണിക്കുന്നതിന് അൽഗോരിത്തിലെ വലുപ്പത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നു ഇപ്പോൾ വ്യക്തമായി എനിക്ക് രണ്ട് അക്ഷരങ്ങൾ ഉള്ളപ്പോൾ അവയിൽ ഒരെണ്ണം 0 ഉം മറ്റൊന്ന് 1 ഉം നൽകുന്നതിനേക്കാൾ മികച്ചത്തിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല അതിനാൽ അടിസ്ഥാന കേസ് ഒപ്റ്റിമൽ ആണ് k മൈനസ് 1 അക്ഷരങ്ങൾക്ക് ഇത് ഒപ്റ്റിമൽ ആണെന്ന് നമ്മൾ അനുമാനിക്കുകയും ഇപ്പോൾ k അക്ഷരങ്ങൾക്ക് അനുയോജ്യമാണെന്ന് കാണിക്കുകയും ചെയ്യും അതിനാൽ ഓർക്കുക ഏറ്റവും കുറഞ്ഞ രണ്ട് ഫ്രീക്വൻസി അക്ഷരങ്ങൾ 1 ആയി സംയോജിപ്പിച്ച് നമ്മൾ k മൈനസ് 1 ലേക്ക് പോയി ഈ ചെറിയ അക്ഷരമാലയ്ക്ക് അനുയോജ്യമായ ട്രീ നിർമ്മിച്ച് x ചെലവഴിച്ച് പുതിയത് നേടുക അതിനാൽ ക്ലെയിം ഞാൻ ട്രീയിൽ നിന്ന് കെ മൈനസ് അക്ഷരങ്ങൾക്ക് മുകളിലൂടെ കെ അക്ഷരങ്ങൾക്ക് മുകളിലൂടെ ട്രീയിലേക്ക് പോകുമ്പോൾ ചെലവ് വർദ്ധിക്കും പക്ഷേ ഞാൻ കരാറിനായി തിരഞ്ഞെടുക്കുന്ന ഏത് അക്ഷരങ്ങളാലും ഈ ചെലവ് പരിഹരിക്കപ്പെടും അതിനാൽ ടി യിൽ നിന്ന് ടി പ്രൈമിലേക്ക് പോകാൻ ഞാൻ x y എന്നിവ തിരഞ്ഞെടുത്ത് ലയിപ്പികുകയാണെങ്കിൽ ഒരു അക്ഷരത്തിന് ശരാശരി ബിറ്റുകൾ മാറാൻ പോകുന്ന തുക ഈ കോമ്പിനേഷൻ f x y അക്ഷരത്തിന്റെ ആവൃത്തിയാണ് അതിനാൽ ഞാൻ തിരഞ്ഞെടുക്കുന്നവ നിർണ്ണായകമായി പരിഹരിക്കുക പിന്നെ മരങ്ങളുടെ വില എനിക്ക് നേരിട്ട് അറിയാമെങ്കിലും ചിലതിന് ശേഷം ചെലവ് വ്യത്യസ്തമാകുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും ഇത് തെളിയിക്കാൻ വളരെ പ്രയാസമില്ല അതിനാൽ ആ സംഗ്രഹത്തിൽ ട്രീ നൊട്ടേഷനിൽ z ന്റെ ഈ ആഴം സെറ്റിന്റെ എൻകോഡിംഗിന്റെ നീളത്തിന് തുല്യമാണെന്ന് ഓർമ്മിക്കുക കാരണം ആഴം കൃത്യമായി എൻകോഡ് ചെയ്യാൻ ഉപയോഗിച്ച സ്ട്രിംഗിന്റെ ദൈർഘ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു അതിനാൽ ഇത് നമ്മുടെ A B L കണക്കുകൂട്ടലാണ് ഇപ്പോൾ x y x y എന്നിവ ഒഴികെയുള്ള ഓരോ നോഡിനും ടി ടി പ്രൈമുകളിൽ ഒരേ സ്ഥാനത്ത് തന്നെ ഉണ്ട് നിബന്ധനകളോടുകൂടിയ ഈ സംഗ്രഹം മാറില്ല ഈ മൂന്ന് നോഡുകളിൽ മാത്രമാണ് മാറ്റങ്ങൾ ഞാൻ എന്തുചെയ്യും എന്തെന്നാൽ ടി പ്രയ്മിൽ നിന്ന് ടിയിലേക്ക് പോകുന്നത് x y എന്ന സംയോജിത അക്ഷരത്തിന്റെ ഈ സംഭാവന ഞാൻ നീക്കംചെയ്യും അടുത്ത തലത്തിൽ xy യുടെ 1 പ്ലസ് ഡെപ്ത് ഞാൻ നോഡ് fx ഉം നോഡ് fx ഉം ചേർക്കും കൂടാതെ എനിക്ക് ഘടകങ്ങൾ xy fx തവണയും xy തവണയും ലഭിക്കും ഞാൻ ഈ തുക ഇടതിൽ കുറയ്ക്കുന്നു തുടർന്ന് ഞാൻ ഈ തുക വലത്തേക്ക് ചേർക്കുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ x y ന്റെ f എന്നത് f x പ്ലസ് f y അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ ഇടത് വശത്തെ പദം യഥാർത്ഥത്തിൽ ഈ വലതുവശത്തെ ഘടകഭാഗത്തിന്റെ ആഴം x y x പ്ലസ് y ന്റെ സമയമാണ് ഞാൻ ഇത് കുറയ്ക്കുകയും അത് വീണ്ടും ചേർക്കുകയും ചെയ്യുന്നു അതിനാൽ അവ പരസ്പരം റദ്ദാക്കുന്നു എനിക്ക് അവശേഷിക്കുന്നത് ഒരു തവണ x പ്ലസ് y ആണ് അത് f x by f y അല്ലെങ്കിൽ f x y ആണ് അതിനാൽ ഞാൻ ടി പ്രൈമിൽ നിന്ന് ടിയിലേക്ക് പോകുന്നു നിർണായക കാര്യം ഞാൻ ഏത് അക്ഷരങ്ങൾ ചുരുക്കി എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ആ പരിഹാരമാണ് അതുല്യമായ വ്യത്യാസം ഇപ്പോൾ എല്ലാ k മൈനസ് 1 ന്റെ അക്ഷരമാലയും കാര്യക്ഷമമായി എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മുക്കറിയാമെന്നും k വലിപ്പത്തിനായി ട്രീ നിർമ്മിക്കാൻ നമ്മൾ ഒരു ആവർത്തന കാര്യം ചെയ്തുവെന്നും കരുതുക ഇത് മറ്റൊരു തന്ത്രമാണ് കെ വലുപ്പത്തിന് മെച്ചപ്പെട്ട ട്രീ ഉൽപാദിപ്പിക്കുന്നത് അതിനാൽ ഇത് മറ്റൊരു ട്രീ കാൻഡിഡേറ്റ് ട്രീ എസ് വ്യത്യസ്തമായ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുന്നു അക്ഷരത്തിനായുള്ള ശരാശരി ബിറ്റുകൾ നമ്മൾ ആവർത്തിച്ച് നിർമ്മിക്കുന്നതിനേക്കാൾ മികച്ചതാണ് ഇപ്പോൾ എസ് നമുക്ക് ആവർത്തിച്ചുള്ള നിർമ്മാണ x y എന്നിവയിൽ ഉപയോഗിക്കുന്ന ഈ രണ്ട് അക്ഷരങ്ങൾ ഉണ്ടെന്ന് അറിയാം അതിനാൽ ഈ ട്രീയിന്റെ അടിയിൽ എവിടെയെങ്കിലും അവ സംഭവിക്കുന്നു അതിനാൽ ഇത് എന്റെ ട്രീ എസ് ആണ് ഇവ ലീഫ് നോഡുകളായിരിക്കണം കാരണം അവയ്ക്ക് എല്ലാ അക്ഷരങ്ങളേക്കാളും ഏറ്റവും കുറഞ്ഞ ആവൃത്തി ഉള്ളതിനാൽ പരമാവധി ഡെപ്ത് ആയിരിക്കണം അതിനാൽ അവ പരസ്പരം അടുത്തായിരിക്കില്ല പക്ഷേ ഇത് പ്രശ്നമല്ല കാരണം അവ രണ്ടും പരമാവധി ആഴത്തിലായതിനാൽ എനിക്ക് അവയെ ചുറ്റിക്കറങ്ങാം ഈ ഘട്ടം എനിക്ക് അക്ഷരങ്ങൾ ചുറ്റും നീക്കാൻ കഴിയും മറ്റ് രണ്ട് ലീഫുകൾ അയച്ചയാൾക്ക് വീണ്ടും നൽകാം അത്തരത്തിലുള്ളവ ഞാൻ പുതിയ എസ് ലേക്ക് വരുന്ന കോൺഫിഗറേഷനുമായി വരുന്നു അതിനെ വീണ്ടും എസ് എന്ന് വിളിക്കുന്നു അവിടെ യഥാർത്ഥത്തിൽ x ഉം y ഉം ഒരുമിച്ചാണ് ഈ ഒപ്റ്റിമൽ പ്രോപ്പർട്ടി ഉള്ള എസ് ട്രീയിൽ നിർമ്മിച്ചതിനേക്കാൾ മികച്ചതാണ് യഥാർത്ഥത്തിൽ x y ഒരു സിബ്ലിംഗ് മറ്റ് പരമാവധി ആഴത്തിൽ നിന്ന് പുറത്തുപോകുന്നുവെന്ന് എനിക്ക് അനുമാനിക്കാം ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എസ് ആണ് ഞാൻ ഇത് ദൃഡമായി സംയോജിപ്പിച്ച് ഒരു എസ് പ്രൈം നേടാൻ പോകുന്നു അതിനാൽ ഈ വിശദീകരണം നമ്മുടെ k മൈനസ് 1 അക്ഷരങ്ങളായിരിക്കും ഇത് ഒരു ആവർത്തന കോൾ വഴി ചെയ്യുന്നതിനുപകരം ഞാൻ യഥാർത്ഥത്തിൽ k അക്ഷരത്തിന് മുകളിലൂടെ ഒരു കോൾ കോൺക്രീറ്റ് ട്രീ എടുക്കുന്നു ഞാൻ യഥാർത്ഥത്തിൽ രണ്ട് നോഡുകൾ 1 ആക്കി കംപ്രസ്സുചെയ്യുന്നു ഒപ്പം k മൈനസിന് മുകളിലുള്ള ഒരു മരത്തിലേക്ക് വിളിക്കുന്നു 1 ഡാറ്റ സെറ്റ് പക്ഷേ ഇത് k മൈനസ് 1 അക്ഷരങ്ങളിലുള്ളതും ഇവ എൻകോഡിംഗിനെ പ്രതിനിധീകരിക്കുന്നതുമായതിനാൽ കെ മൈനസ് 1 അക്ഷരങ്ങൾക്കായി ഞാൻ ആവർത്തിച്ച് കണക്കുകൂട്ടിയ എൻകോഡിംഗിനേക്കാൾ മികച്ചതായിരിക്കാൻ കഴിയില്ല കാരണം ആ അൽഗോരിതം ഇൻഡക്ഷൻ വഴി k മൈനസ് 1 അക്ഷരങ്ങൾ ആണ് അതിനാൽ എസ് പ്രൈം ടി സമയത്തേക്കാൾ മികച്ചതല്ല പക്ഷേ എക്സ് വൈയുടെ പ്രൈം പ്ലസ് എഫ് എസ് ആയതിനാൽ ടി പ്രൈം പ്ലസ് എഫ് ഓഫ് എക്സ് വൈ ടി ആണ് അതിനാൽ വ്യത്യസ്ത ടി പ്രൈം ടി എസ് പ്രൈം എസ് എന്നിവയും കൃത്യമായി തുല്യവുമാണ് എസ് പ്രൈം അന്നത്തെ ടി പ്രൈമാണ് പിന്നെ എസ് ടി യേക്കാൾ മികച്ചതാക്കാൻ കഴിയില്ല അതിനാൽ ടി യേക്കാൾ മെച്ചപ്പെട്ടതിനാൽ ഇത് 2 ആണെന്ന് കർശനമായി കരുതുന്നത് ഒരു വൈരുദ്ധ്യമാണ് നടപ്പാക്കലിനെക്കുറിച്ചുള്ള വാക്ക് അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് k മൈനസ് 1 തവണയാണ് ഈ രണ്ട് മിനിമം മൂല്യങ്ങൾ ലയിപ്പിച്ച് ആവർത്തന പരിഹാരം കണക്കുകൂട്ടണം ബോട്ടിൽ നെക്ക് എന്താണ് ഏറ്റവും കുറഞ്ഞ മൂല്യങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങൾ ഒരു അറേ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ മൂല്യങ്ങൾ കണ്ടെത്താൻ അറേ തൽക്ഷണം സ്കാൻ ചെയ്യുന്നതായി നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ മൂല്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഓർക്കുക എല്ലാവർക്കുമായി അയയ്ക്കാൻ എനിക്ക് ഇത് ചെറുതാക്കാൻ കഴിയില്ല കാരണം ഓരോ തവണയും ഞാൻ രണ്ട് അക്ഷരങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ എന്റെ അറേയിലേക്ക് ഒരു പുതിയ മിനിമം മൂല്യം ഉപയോഗിക്കാം അത് മുമ്പുണ്ടായിരുന്നില്ല ഒരു പുതിയ മൂല്യമല്ല അത് മിനിമം ആയിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകില്ല ഓരോ അവസ്ഥയും എനിക്ക് ഏറ്റവും കുറഞ്ഞത് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇത് ഓരോ തവണയും ചെയ്യാവുന്ന ഒരു ഓർഡർ കേസാണ് ലീനിയർ സ്കാൻ ചെയ്ത് ഞാൻ ഈ തവണ ഉചിതമായ k ചെയ്യുന്നു അതിനാൽ എനിക്ക് ഓർഡർ കേസ് രണ്ട് ലഭിക്കുന്നു പക്ഷേ ഈ ബോട്ടിൽ നെക്കിന് ഒരു ഹീപ് ഉപയോഗിച്ച് ചുറ്റിക്കറങ്ങാൻ കഴിയുമെന്ന് വ്യക്തമായി മനസ്സിലാക്കണം അവിടെ മിനിമം കണ്ടെത്തുന്നതിൽ എന്ത് കൂമ്പാരമാണ് നല്ലതെന്ന് കൃത്യമായി അറിയാം ഫ്രീക്വൻസികൾ ഒരു ഹീപ് ആയിട്ടല്ല ഞാൻ നിലനിർത്തുന്നതെങ്കിൽ ഓർഡർ ലോഗ് കെ സമയം എനിക്ക് ഏറ്റവും കുറഞ്ഞ മൂല്യങ്ങൾ കണ്ടെത്താനാകും തുടർന്ന് കെ സമയം ലോഗ് ചെയ്യുന്നതിനായി പുതിയ സംയോജിത അക്ഷരവും കൂമ്പാരത്തിലേക്ക് തിരികെ ചേർക്കാം അതിനാൽ ഓരോ ആവർത്തനവും കുറച്ച് ലോഗ് കെ എടുക്കുന്നു അതിനാൽ ഞാൻ k സ്ക്വയറിൽ നിന്ന് k ലോഗ് കെ ആയി മെച്ചപ്പെടുത്തുന്നു ഇത് അവസാനത്തെ ഗ്രീടി അൽഗോരിതം ആയിരിക്കുമെന്നത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അതിനാൽ y ഗ്രീടിയാണ് കാരണം ഓരോ തവണയും നമ്മൾ ഒരു ആവർത്തന കോൾ വിളിക്കുമ്പോൾ രണ്ട് നോഡുകൾ ഒന്നായി സംയോജിപ്പിക്കാൻ തീരുമാനിക്കുകയും രണ്ട് അക്ഷരങ്ങൾ ഏറ്റവും കുറഞ്ഞ ആവൃത്തികളോടെ എല്ലായ്പ്പോഴും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഇപ്പോൾ എന്താണ് പറയേണ്ടത് ഏറ്റവും കുറഞ്ഞതും മൂന്നാമത്തെ വരികളും തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് മികച്ചതാക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു ശ്രമം നടത്തുന്നു രണ്ടാമത്തെ വരികളിലേക്ക് ഏറ്റവും താഴ്ന്നത് മാത്രമേ നമ്മൾ ശ്രമിക്കൂ നമ്മൾ പ്രാദേശികമായി ഒപ്റ്റിമൽ ചോയ്സ് നടത്തുന്നു ഒപ്പം തിരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുന്നു സന്ദർശിച്ചവരിലേക്ക് മടങ്ങിവരില്ല ഒടുവിൽ നമുക്ക് ഒരു ആഗോള പരിഹാരം ലഭിക്കും ഇപ്പോൾ ഈ ആഗോള പരിഹാരം യഥാർത്ഥത്തിൽ ഒപ്റ്റിമൽ ആണെന്ന് തെളിയിക്കുന്നു നമ്മൾ അത് ചെയ്യാതിരിക്കാൻ മറ്റൊരു കാരണവുമില്ല കാരണം ഞാൻ ഒരു ഹ്രസ്വമായ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിലെ സമയത്ത് രണ്ട് മോശം ആവൃത്തികൾ എടുത്ത് അവയെ സംയോജിപ്പിക്കുക നിങ്ങൾ എല്ലായ്പ്പോഴും മികച്ച പരിഹാരം നേടാൻ പോകുന്നു അതിനാൽ ഇതാണ് ഗ്രീടി അക്ഷരo ഒടുവിൽ ഒരു ഹ്രസ്വ ചരിത്ര കുറിപ്പ് ക്ലോട്ട് ഷാനൻ വിവര സിദ്ധാന്തത്തിന്റെ പിതാവാണ് 1950 ൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നവർ കണ്ടെത്തുന്നതും കാര്യക്ഷമവുമാണ് അതിനാൽ ഷാനനും ഫാനോയും ഭിന്നിപ്പും ജയിക്കലും മുന്നോട്ടുവച്ചു അക്ഷരമാലയുടെ എൻകോഡിംഗ് നോക്കാം അവയിൽ ചിലത് 0 ത്തിൽ ആരംഭിക്കാൻ പോകുന്നു മറ്റുചിലത് 1 ൽ ആരംഭിക്കാൻ പോകുന്നു നമ്മൾ നിർമ്മിക്കുന്ന ഈ കോഡിംഗ് ട്രീയുടെ ഇടത് സൈഡ് ട്രീയിലുള്ളതെല്ലാം കണ്ടെത്തിയ 0 ത്തിന്റെ ഒരു കോഡ് ഉണ്ടായിരിക്കും വലതുവശത്തുള്ള എല്ലാം കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും അതിനാൽ ഇത് അവർക്ക് അവബോധജന്യമാണെന്ന് തോന്നുന്നു തുടർന്ന് വിഭജിച്ച് കീഴടക്കുക തന്ത്രം നല്ലതാണ് നിങ്ങൾക്ക് ഈ ഭാഗത്ത് അക്ഷരങ്ങൾ ഇടാൻ കഴിയുന്നത് അതായത് മൊത്തം അക്ഷരമാലയുടെ ആവൃത്തി ഭാരം ഏകദേശം ഉൾക്കൊള്ളുന്നു അത് എല്ലാ അക്ഷരങ്ങളുടെയും ആവൃത്തിയാണ് ആരാണ് എൻകോഡിംഗ് 0 എന്ന് ആരംഭിക്കുന്നത് അവയുടെ ആവൃത്തി ഏകദേശം കഠിനവും മറ്റൊന്ന് കഠിനവുമാണ് അതിനാൽ രണ്ടിൽ അക്ഷരമാല തുല്യ ഭാരം ആയി വിഭജിക്കുക അവയിൽ ചിലത് 0 ത്തിൽ ആരംഭിക്കാൻ നിയോഗിക്കുക മറ്റൊന്ന് 1 ൽ നിന്ന് ആരംഭിക്കുക തുടർന്ന് ഞാൻ ഇത് ആവർത്തിക്കുന്നു അതിനാൽ ഒരു വിഭജനം A 1 A 2 ആണ് പരസ്പരം സെറ്റുകളിലെ ആവൃത്തികളുടെ ആകെത്തുക ഏകദേശം തുല്യമാണ് അവ ആവർത്തിച്ച് പരിഹരിക്കുക നിർഭാഗ്യവശാൽ ഇത് ഒരു ഒപ്റ്റിമൽ എൻകോഡിംഗ് സൃഷ്ടിക്കുന്നതിനുള്ള ഗ്യാരണ്ടിയല്ല നമുക്ക് ഉദാഹരണത്തിലേക്ക് വരാം അവിടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും കൂടാതെ മറ്റെന്തിന്റെയെങ്കിലും അവസാനത്തിൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയുo ഫാനോയുടെ ഒരു കോഴ്സിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ഹഫ്മാൻ അദ്ദേഹം ഈ പ്രശ്നത്തെക്കുറിച്ച് കേട്ടു നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ മിടുക്കുള്ള അൽഗോരിതം കൊണ്ടുവന്നു